Keywords നിയന്ത്രണം സ്റ്റീം ഫ്ലോ റേറ്റ് ഫീഡ്ബാക്ക് പിഐ കൺട്രോളർ ടൈം ഡിലേ പോൾസ് ഇൻവർസ് റസ്പോൺസ് പ്രക്രിയകളിലുള്ള നമ്മളുടെ പ്രഭാഷണത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരാം ഇൻവർസ് റസ്പോൺസ് പ്രക്രിയകൾ എന്തൊക്കെയാണ് ആദ്യം നമുക്ക് അത് നിർവചിക്കാം ഔട്ട്പുട്ട് രണ്ട് ഇഫക്റ്റുകൾ ഉൽപാദിപ്പിക്കുമ്പോൾ സാധാരണയായി ഇൻവർസ് റസ്പോൺസ് പ്രക്രിയകൾ സംഭവിക്കുന്നു ഒരു തരം ഔട്ട്പുട്ട് ഉൽപാദിപ്പിക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട് മറ്റൊരു ഔട്ട്പുട്ട് ഉൽപാദിപ്പിക്കുന്ന മറ്റൊരു ഇഫക്റ്റും ഉണ്ട് ഇവ രണ്ടും ചേർന്ന് ഇഫക്റ്റ് ഉൽപാദിപ്പിക്കുകയും ഔട്ട്പുട്ടിന്റെ മൊത്തത്തിലുള്ള പ്രഭാവം പരസ്പരം എതിർക്കുകയും ചെയ്യുന്നു ഒന്ന് പ്ലസ് ആണെങ്കിൽ മറ്റൊന്ന് മൈനസ് ആണെങ്കിൽ അവ വിപരീതമാണ് രണ്ടാമത്തെ വസ്തുത ടൈം സ്കെയിലാണ് ടൈം സ്കെയിലിന്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ ഇത് ആധിപത്യം പുലർത്തുന്നു ദീർഘകാലാടിസ്ഥാനത്തിൽ മറ്റൊന്ന് ആധിപത്യം സ്ഥാപിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഹ്രസ്വകാലത്തേക്ക് അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രഭാവം ലഭിക്കും എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മറ്റൊരു പ്രഭാവം ലഭിക്കും അത് മറ്റൊന്നിനനുസരിച്ച് വരും ഇവരണ്ടും വിപരീതം ആവാം ഒരു ഇൻപുട്ടിന്റെ പ്രതികരണം തുടക്കത്തിൽ ഒരു വിപരീത രീതിയിലായതിനാൽ ഇതിനെ ഒരു ഇൻവർസ് റസ്പോൺസ് പ്രക്രിയ എന്ന് വിളിക്കുന്നു ഈ പ്രോസസ്സിനായി നിങ്ങൾ ഒരു കൺട്രോളർ രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ പ്രാരംഭ ടൈം സ്കെയിലുകൾക്കായി ഇതായിരിക്കും പ്രതികരണം ഇത് യഥാർത്ഥത്തിൽ കൺട്രോളറെ ആശയക്കുഴപ്പത്തിലാക്കും ഇത് ഒരു അസ്ഥിരതയ്ക്ക് കാരണമായേക്കാം അടുത്ത കാര്യം പ്രധാന പ്രശ്നമാണ് ഉദാഹരണത്തിന് തുടക്കത്തിൽ ഇത് ആധിപത്യം സ്ഥാപിക്കുകയും പിന്നീട് ഇത് ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് പ്ലസ് ഉള്ളതിനാലും ഒരു മൈനസ് ഉള്ളതിനാലും എതിർ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് വ്യക്തമാണ് എന്നാൽ തുടക്കത്തിൽ ഇത് ആധിപത്യം സ്ഥാപിക്കുമെന്നും പിന്നീട് മറ്റൊന്ന് ആധിപത്യം സ്ഥാപിക്കുമെന്നും നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഉദാഹരണത്തിന് ഈ ശാഖയുടെ പ്രഭാവം ഒരു നെഗറ്റീവ് ഔട്ട്പുട്ട് ഉൽപാദിപ്പിക്കുന്നതാണ് മറ്റ് ബ്രാഞ്ചുകളുടെ ഫലം പോസിറ്റീവ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് K2 K1 sτ2 ഉണ്ടെങ്കിൽ പ്രാരംഭ ഘട്ടങ്ങളിലേക്ക് പ്രതികരണം ഒരു നേർരേഖ പോലെ വർദ്ധിക്കുന്നു അതിന്റെ ചരിവ് K τ നൽകുന്നു പ്രാരംഭ പ്രതികരണ സമയത്ത് ഈ ബ്ലോക്ക് ഒരു ചരിവ് സൃഷ്ടിക്കും K2 τ2 മറ്റൊരു ബ്ലോക്ക് സൃഷ്ടിക്കുന്ന ചരിവ് K1 τ1 വേറൊന്ന് K2 τ ആണ് ഈ വ്യവസ്ഥ അനുസരിച്ച് K2 τ2 K1 τ1 ആണ് തുടക്കത്തിൽ ഇതാണ് പ്രതികരണം ഇപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം ഇത് ആ പ്രക്രിയയുടെ സ്റ്റെപ്പ് റസ്പോൺസ് ആണെന്ന് നമുക്ക് കരുതാം ഞാൻ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് നൽകിയാൽ K2 ബ്ലോക്ക് കാരണം ഈ പ്രതികരണം ആരംഭിക്കും ഈ ബ്ലോക്ക് എവിടെ ഇടണമെന്ന് മനസിലാക്കാൻ വളരെ പ്രയാസമാണ് അതിനാൽ K1 ബ്ലോക്ക് മൂലമുള്ള പ്രതികരണം ഈ വഴിയിലൂടെ ആരംഭിക്കുകയും K2 ബ്ലോക്ക് മൂലമുള്ള പ്രതികരണം ഈ ചരിവിലൂടെ ആരംഭിക്കുകയും ചെയ്യും ഇതിൻറെ ഫലം മൊത്തം പ്രതികരണം ആദ്യം നെഗറ്റീവ് ലേക്ക് പോകാൻ തുടങ്ങും പിന്നീട് അത് അടയാളം മാറും അത് K1 K2 തലത്തിൽ പാർപ്പിക്കും കാരണം K2 ബ്ലോക്ക് മൂലമുള്ള പ്രതികരണം യഥാർത്ഥത്തിൽ ഇതുപോലെയായിരിക്കും അതേസമയം K1 ബ്ലോക്ക് മൂലമുള്ള പ്രതികരണം ഇങ്ങനെയായിരിക്കും ഇതാണ് മൊത്തത്തിലുള്ള പ്രതികരണം സിസ്റ്റത്തിന് പോസിറ്റീവ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് നൽകിയിട്ടുണ്ടെങ്കിലും സിസ്റ്റം ഒരു ഇൻവർസ് റസ്പോൺസ് കാണിക്കും അത് വിപരീത ദിശയിലേക്ക് പോകുകയും ഒടുവിൽ പോസിറ്റീവ് ദിശയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്യും ഇതിനെ ഇൻവർസ് റസ്പോൺസ് എന്ന് വിളിക്കുന്നു നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രതികരണത്തിന്റെ ഡെറിവേറ്റീവ് പ്രതികരണ ചിഹ്നത്തെ മാറ്റുന്നതിനേക്കാൾ വളരെ മുൻപേ ഇത് മാറും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണിത് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കണ്ടതിനാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നതിന്റെ ഒരു ഉദാഹരണമെങ്കിലും നമുക്ക് നോക്കാം ഇൻവർസ് റസ്പോൺസ് പ്രോസസറിന്റെ വളരെ മികച്ച ഉദാഹരണമാണിത് ചിലപ്പോൾ ഇതിനെ നോൺ മിനിമം ഫേസ് സിസ്റ്റങ്ങൾ എന്നും വിളിക്കുന്നു ഇത് ഒരു ക്ലാസിക് ബോയിലർ ഡ്രം ലെവൽ നിയന്ത്രണമാണ് ഇൻവർസ് റസ്പോൺസ് പ്രക്രിയയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണിത് ഒരു പവർ സ്റ്റേഷനിൽ ബോയിലറുകളിൽ ട്യൂബുകളുണ്ട് ആ ട്യൂബുകളിൽ വെള്ളം ബാഷ്പീകരിക്കപ്പെടുന്നു ഡ്രം എന്ന് വിളിക്കുന്ന ബോയിലറിലെ ടാങ്കിൽ നിന്ന് വെള്ളം ഒഴുകുന്നു അതിനാൽ ഇതിന്റെ ശരിയായ ചിത്രം നമുക്ക് നേടാം ഇതാണ് കണ്ടെയ്നർ ഫീഡ് വെള്ളം വർദ്ധിക്കുന്നു ഇവിടെ കാണിക്കാത്ത മറ്റൊരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇതിലൂടെയാണ് വെള്ളം ബോയിലർ ട്യൂബുകളിലേക്ക് ഒഴുകുന്നത് വെള്ളം ബോയിലർ ട്യൂബുകളിലേക്ക് പോയി മടങ്ങുന്നു അത് മടങ്ങുമ്പോൾ അതിന് ധാരാളം നീരാവി ഉണ്ട് വെള്ളം മടങ്ങുന്നു ഇതാണ് ബോയിലർ ഡ്രം നില ഇതിനെ ബോയിലർ ഡ്രം എന്ന് വിളിക്കുന്നു ഇത് വളരെ ഉയരത്തിൽ സ്ഥിതിചെയ്യുന്ന ഒരു വലിയ തിരശ്ചീന ടാങ്കാണ് സാധാരണയായി ഒരു പവർ സ്റ്റേഷൻ ബോയിലർ ഏകദേശം മൂന്ന് നിലകളുള്ളതാണ് അതിനു മുകളിലാണ് ഡ്രം നിങ്ങൾക്കത് കാണണമെങ്കിൽ നിങ്ങൾ നിരവധി പടികൾ കയറണം ബോയിലറുകളുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വെള്ളം ഇവിടെ പ്രവേശിക്കുന്നു ഭാരം കുറവായതിനാൽ ധാരാളം നീരാവി കുമിളകൾ ഉപരിതലത്തിലേക്ക് വരുന്നു അവ ഉപരിതലത്തിലേക്ക് വരികയും പിന്നീട് പൊട്ടി പോകുകയും ചെയ്യുന്നു അവ ബോയിലറിൽ ഒരു നീരാവി ഭാഗം ഉണ്ടാക്കുന്നു അത് ഒടുവിൽ പുറത്തുപോയി സൂപ്പർ ഹീറ്ററിലേക്ക് പോയി വൈദ്യുതി ഉൽപാദനത്തിനായി ടർബൈനിൽ പ്രവേശിക്കുന്നു സ്ഥിരമായ അവസ്ഥയിൽ ബോയിലർ ഡ്രം ലെവലിന്റെ മാസ് നിലനിർത്തേണ്ടതുണ്ട് സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുന്ന മാസും തീറ്റയുടെ മാസും സിസ്റ്റത്തിൽ നിന്ന് പുറത്തുപോകുന്ന നീരാവിയുടെ മാസുംപൊരുത്തപ്പെടണം പവർ സ്റ്റേഷൻ ഓപ്പറേറ്റർ പവർ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക ഈ വർദ്ധിച്ച ഊർജത്തിനായി നിങ്ങൾ ടർബൈനിലേക്ക് വർദ്ധിച്ച നീരാവി നൽകേണ്ടതുണ്ട് സ്റ്റീം ഫ്ലോ റേറ്റ് സ്ഥിരമായ അവസ്ഥയിൽ ഉടനടി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതും ഇവിടെ കാണിക്കുന്നു സ്റ്റീം ഫ്ലോ റേറ്റ് യഥാർത്ഥത്തിൽ ജലപ്രവാഹ നിരക്കിനേക്കാൾ വലുതാണ് ഒരു മെറ്റീരിയൽ അസന്തുലിതാവസ്ഥയുണ്ട് ഒടുവിൽ ഈ ഡ്രം ലെവൽ കുറയാൻ തുടങ്ങണം കാരണം കുറഞ്ഞ മെറ്റീരിയൽ പ്രവേശിക്കുകയും കൂടുതൽ മെറ്റീരിയൽ സിസ്റ്റം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇത് സ്ഥിരമായ അവസ്ഥയിൽ സംഭവിക്കാൻ പോകുന്നു സ്റ്റീം ഫ്ലോ റേറ്റ് വർദ്ധിക്കുമ്പോൾ ഉടനടി എന്ത് സംഭവിക്കും ഇതിലെ സമ്മർദ്ദം കുറയുന്നു ഈ നില ഇവിടെയുണ്ട് ഇവ നീരാവി കുമിളകളാണ് എന്നതാണ് വസ്തുത നീരാവി കുമിളകൾ ഉൾക്കൊള്ളുന്ന വോളിയം യഥാർത്ഥത്തിൽ ഉപരിതലത്തിൽ പ്രയോഗിക്കുന്ന സമ്മർദ്ദത്തെ ആശ്രയിച്ചിരിക്കുന്നു ഈ സമ്മർദ്ദം പുറത്തിറങ്ങുന്ന നിമിഷം ഈ കുമിളകൾ വികസിക്കും നീരാവി കുമിളകളുടെ വികാസം കാരണം ഈ അളവ് ഉയരും നോൺ മിനിമം ഫേസ് പ്രതികരണത്തിൽ ദൈർഘ്യമേറിയ ശ്രേണിയിൽ വോളിയം കുറയാൻ തുടങ്ങും എന്നാൽ ഹ്രസ്വ ശ്രേണിയിൽ വോളിയം വർദ്ധിക്കും ഇത് നോൺ മിനിമം ഫേസ് സ്വഭാവമാണ് മറ്റ് പല കേസുകളിലും ഇത് കാണിച്ചിരിക്കുന്നു എയ്റോസ്പേസ് പ്ലാന്റിന്റെ അത്തരമൊരു കാര്യം കാണിച്ചിരിക്കുന്നു നമുക്ക് വിശകലനമായി കാര്യം നോക്കാം നിങ്ങൾ ഫീഡ്ബാക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുകയും ഒരു ചെറിയ വിശകലനം നടത്തുകയും ചെയ്താൽ കണ്ടെത്തും സ്മിത്ത് പ്രിഡിക്റ്റർ ഔട്ട്പുട്ട് നമ്മൾ ചേർക്കുന്ന സ്ഥലമാണ് y ഫീഡ്ബാക്ക് അതിനാൽ ഇത് y ആയിരുന്നു ഇത് G ആയിരുന്നു നമ്മൾ ഇതുവരെ ഫീഡ്ബാക്ക് പരിഗണിക്കുന്നില്ല അതിനാൽ ഇത് ഓപ്പൺ ലൂപ്പ് ഔട്ട്പുട്ട് മാത്രമാണ് ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് പിന്നോട്ട് പോകാം ഇത്പ്രതികരണമല്ലാതെ മറ്റൊന്നുമല്ല y കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പദപ്രയോഗം ലഭിക്കും ഇത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് K2τ1 യഥാർത്ഥത്തിൽ K1τ2 നേക്കാൾ വലുതാണ് ഈ പദപ്രയോഗത്തിൽ നിന്ന് ഇത് യഥാർത്ഥത്തിൽ പൂജ്യത്തേക്കാൾ കുറഞ്ഞ നെഗറ്റീവ് അളവാണ് ഇത് പൂജ്യത്തേക്കാൾ വലിയ പോസിറ്റീവ് അളവാണ് കാരണം K1 K2 1 നിങ്ങൾക്ക് a bs എന്നതുപോലുള്ള പദങ്ങളുണ്ട് അതിനർത്ഥം അതിന് സീറോ ഉണ്ട് എന്നാണ് ഇത് പോൾസ് നൽകും ഇത് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ സീറോ നൽകും ഇതാണ് റൈറ്റ് ഹാഫ് പ്ലെയിൻ സീറോ എന്നറിയപ്പെടുന്നത് സീറോന്റെ യഥാർത്ഥ ഭാഗം റൈറ്റ് ഹാഫ് പ്ലെയിൻ ആണ് അത്തരം ട്രാൻസ്ഫർ ഫംഗ്ഷനുകളെ മറ്റൊരു കാരണത്താൽ മിനിമം ഫേസ് എന്ന് വിളിക്കുന്നു നമുക്ക് അതിൽ ആശങ്കയില്ല അത് വിശദീകരിക്കാൻ നമ്മൾ ശ്രമിക്കില്ല കൂടാതെ സീറോ സ്ഥാനം നൽകുന്നത് ഇതാണ് K1τ2 K2τ1 ചോദ്യം ഇതാണ് ഈ വിപരീത പ്രതികരണമാണ് ഈ ഇൻവർസ് റസ്പോൺസിന് കാരണമാകുന്നത് ഇത് സീറോനും കാരണമാകുന്നുണ്ടോ ഈ നോൺ മിനിമം ഫേസ് സ്വഭാവം എങ്ങനെ നീക്കംചെയ്യാം എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത് നീക്കംചെയ്യണം ഈ സമയത്ത് കൺട്രോളർ ആശയക്കുഴപ്പത്തിലാകാൻ പോകുന്നുവെന്ന് നമുക്ക് മനസിലാക്കാൻ കഴിയും കാരണം അന്തിമ പ്രതികരണത്തിനായി കൺട്രോളർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിനാൽ അത് ഒരു പ്രത്യേക രീതിയിൽ നീങ്ങണം തുടക്കത്തിൽ പ്രതികരണം മറ്റൊരു രീതിയിൽ നീങ്ങാൻ പോകുന്നു കൺട്രോളർ വ്യത്യസ്ത തരം നിയന്ത്രണം നൽകുന്ന പ്രവണത കാണിക്കും ഇത് പ്ലാന്റ് ഓടിക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടാക്കും ഈ നോൺ മിനിമം ഫേസ് സീറോ നീക്കം ചെയ്യുകയും എങ്ങനെയെങ്കിലും ഒരു മിനിമം ഫേസ് സീറോ ഇടുകയും വേണം നമ്മൾ ഇതുവരെ പരിഗണിച്ച തരത്തിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനായി കൂടാതെ ഫസ്റ്റ് ലെവൽ കൺട്രോൾ കോഴ്സുകളിലും അവയ്ക്ക് എല്ലായ്പ്പോഴും പോൾസ് ഉണ്ട് സ്ഥിരമാകുമ്പോൾ പോൾസ് ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ ആകാം അവ റൈറ്റ് ഹാഫ് പ്ലെയിനിൽ ആണെങ്കിൽ അത് അസ്ഥിരമായിരിക്കും ഒരു കൺട്രോളർ ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നതിലൂടെ റൈറ്റ് ഹാഫ് പ്ലെയിനിൽ മുതൽ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ വരെ കൊണ്ടുവരാൻ കഴിയുമെന്ന് കണ്ടു എന്നാൽ സീറോ എന്നത് നമ്മൾ എന്തുചെയ്യും സീറോ മാറ്റുന്നതിനുള്ള ഒരു അടിസ്ഥാന മാർഗമുണ്ട് s a s b എന്നൊരു ട്രാൻസ്ഫർ ഫംഗ്ഷന് ഉണ്ടെന്ന് കരുതുക ഇതിന് ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിൽ സീറോ ഉണ്ട് അത് റൈറ്റ് ഹാഫ് പ്ലെയിൻ ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ഇത് s c s d ആക്കണം നമുക്ക് അതിനെ s c s a കൊണ്ട് ഗുണിക്കാം നമ്മൾ സീറോ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ഇത് മാത്രം അനുവദിക്കുക സീറോ മാറ്റണമെങ്കിൽ എല്ലായ്പ്പോഴും ഇത് ഗുണിക്കാം ഇതും ഇതും റദ്ദാക്കപ്പെടുകയും ഇത് ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക്റൈറ്റ് ഹാഫ് പ്ലെയിൻ ഉള്ളപ്പോൾ ഇത് സാധ്യമല്ല കാരണം അത് s b ആണെങ്കിൽ s c കൊണ്ട് ഗുണിച്ച് ഇത് റദ്ദാക്കി എന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം ഈ ഫംഗ്ഷൻ അസ്ഥിരമാണ് ഇത് ആന്തരിക സ്ഥിരതയിൽ അറിയപ്പെടുന്നതിന് കാരണമാകും ഔട്ട്പുട്ടിനെ ബാധിക്കില്ലെങ്കിലും ആന്തരികമായി ചില സിഗ്നലുകൾ അസ്ഥിരമാകും അതിനാൽ നമുക്ക് സീറോ റദ്ദാക്കാൻ കഴിയില്ല ഇത് മറ്റൊരു കേസാണ് നമ്മൾ നിയന്ത്രണ പ്രശ്നത്തിലേക്ക് വരുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു PI കൺട്രോളർ ഉണ്ടെങ്കിൽ അത് ശരിയായ ദിശയിൽ കുറച്ച് ഇൻപുട്ട് പ്രയോഗിക്കും ഇത് സെറ്റ് പോയിന്റ് മാറ്റുമ്പോൾ പിശക് കുറയുന്നില്ല കാരണം പിശക് വിപരീതമായി പോകുന്നു കാരണം റസ്പോൺസ് വിപരീത ദിശയിലേക്ക് പോകുന്നു അങ്ങനെ പിശക് കുറയുന്നില്ല പക്ഷേ അത് വർദ്ധിക്കുന്നു പിഐ കൺട്രോളർ എന്താണ് ചെയ്യുന്നത് കൂടുതൽ ഇൻപുട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഇൻവർസ് റസ്പോൺസ് വരും ഇത് ഒരു അസ്ഥിരമായ സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം നിങ്ങൾക്ക് ഒരു PID കണ്ട്രോളർ ഉണ്ടെങ്കിൽ അസ്ഥിരമായ ഒരു സാഹചര്യത്തിൽ കൺട്രോളർ പിശകിനെ അവിഭാജ്യമായി കാണുന്നു എന്ന് മാത്രമല്ല അത് നിരക്കും കാണുന്നു നിരക്ക് വേഗത്തിൽ വിപരീതമാക്കും അതിനാൽ പിഐഡി കൺട്രോളർ അൽപം മികച്ച പ്രതികരണം നൽകാൻ സാധ്യതയുണ്ട് കാരണം ഇത് വിപരീതമാക്കാൻ ശ്രമിക്കും ഡെറിവേറ്റീവ് റിവേർസിംഗ് കാരണം ശരിയായ ഇൻപുട്ടുകൾ വളരെ വേഗത്തിൽ നൽകും ഈ ഇൻവർസ് റസ്പോൺസ്സിനെ നമുക്ക് എങ്ങനെ നഷ്ടപരിഹാരം നൽകാൻ കഴിയും ഒന്നാമതായി എന്താണ് ആവശ്യം ആവശ്യകത എന്തെന്നാൽ സ്ഥിരമായ അവസ്ഥയിൽ എന്റെ പ്രതികരണം ശരിയായിരിക്കണം ഞാൻ എന്ത് താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും സ്ഥിരമായ അവസ്ഥയിൽ അതിന്റെ ഫലം ഉണ്ടാകരുത് എന്നാൽ ട്രാൻസിയൻറ്റ് പ്രതികരണത്തിൽ ഈ ഇൻവർസ് റസ്പോൺസ് എന്തുചെയ്യണം ഇത് കൺട്രോളറെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിനാൽ ഇത് കൺട്രോളറിലേക്ക് തിരികെ നൽകാൻ അനുവദിക്കരുത് ഇതാണ് പ്രധാന കാര്യം അതിനാൽ ഇത് പ്രാരംഭ ഭാഗങ്ങളിലെ ഫീഡ്ബാക്കിൽ നിന്ന് ഇൻവർസ് റസ്പോൺസ് നീക്കംചെയ്യണം അത് എങ്ങനെ ചെയ്യാം സ്മിത്ത് പ്രിഡിക്റ്റർ പോലെ ഇവിടെ വീണ്ടും മറ്റൊരു പദം ചേർക്കുന്നു സ്ഥിരമായ അവസ്ഥയിൽ ഈ പദത്തിന്റെ ഫലം എന്താണ് സ്ഥിരമായ അവസ്ഥയിൽ ഈ പദത്തിന്റെ പ്രഭാവം 0 ആണെന്ന് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയും കാരണം 1 1 s τ2 1 1 s τ1 നമുക്ക് s 0 ആയി സജ്ജമാക്കാം ഇതിന്റെ സ്ഥിരമായ നേട്ടം 0 ആണ് എന്നിട്ട് സ്ഥിരമായ അവസ്ഥയിൽ ഒരു ഫലവും ഉണ്ടാകില്ല എന്നാൽ ട്രാൻസിയൻറ്റ് അവസ്ഥയിൽ എന്ത് സംഭവിക്കും ഓപ്പൺ ലൂപ്പ് റെസ്പോൺസ് ഫീഡ്ബാക്കിനേക്കാൾ പ്ലാന്റ് ഈ ഫീഡ്ബാക്ക് കാണുന്നു ഞാൻ ഇപ്പോൾ പ്ലാന്റിന്റെ കാഴ്ച പരിഷ്കരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കണക്കാക്കിയാൽ ഫീഡ്ബാക്ക് പദം നിങ്ങൾക്ക് K1 τ2 -k2 τ1 K τ1 τ2 ആയി ലഭിക്കും ഈ പദം ഇപ്പോൾ ചേർത്തു മുമ്പ് ഇത് മാത്രമായിരുന്നു അത് നെഗറ്റീവ് ആയിരുന്നു നിങ്ങൾക്ക് സീറോ മാറ്റാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കേണ്ട k ഇൻറെ തുക തുല്യമോ കൂടുതലോ ആയിരിക്കണം അപ്പോൾ ഈ 0 ഇടത് പകുതിയായി മാറും കൂടാതെ ഏറ്റവും കുറഞ്ഞ സ്റ്റെപ്പ് റസ്പോൺസ് കൺട്രോളറിന് കാണിക്കില്ല അതിനാൽ കൺട്രോളർ നോൺ മിനിമം ഫേസ് പ്രതികരണം കാണില്ല കൂടാതെ ആശയക്കുഴപ്പത്തിലാകില്ല നോൺ മിനിമം ഫേസ് സംവിധാനങ്ങൾക്കായി സ്വീകരിക്കുന്ന സമീപനമാണിത് നമ്മൾ ഇപ്പോൾ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുന്നു പാഠം വേഗത്തിൽ അവലോകനം ചെയ്യേണ്ടതുണ്ട് ആദ്യം ടൈം ഡിലേന്റെ ഉറവിടങ്ങളും സ്ഥിരതയെ ബാധിക്കുന്ന ഫലങ്ങളും നമ്മൾ കണ്ടു സ്മിത്ത് പ്രെഡിക്ടർ നിയന്ത്രണങ്ങൾ വഴി നമ്മൾ നിയന്ത്രിക്കാനുള്ള ഒരു വഴി കണ്ടു ഇൻവർസ് പ്രതികരണത്തിനായി ഒരു വഴി കണ്ടു ഇൻവർസ് റസ്പോൺസ് ഒരു പ്രക്രിയയിൽ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ കണ്ടു ഒടുവിൽ ഇൻവർസ് റസ്പോൺസ് കോമ്പൻസേഷൻറെ ഒരു മാർഗം നമ്മൾ കണ്ടു കോഴ്സ് അവസാനിപ്പിക്കാൻ നമുക്ക് പതിവുപോലെ ആലോചിക്കാൻ ചില പോയിന്റുകളുണ്ട് ടൈം ഡിലേന്റെ രണ്ട് സാധാരണ ഉറവിടങ്ങൾ നിങ്ങൾക്ക് വിവരിക്കാൻ കഴിയും ഉദാഹരണത്തിന് വ്യാവസായിക പ്രക്രിയകളിൽ നിങ്ങൾ നിങ്ങളുടെ ഉദാഹരണം നൽകുകയും ടൈം ഡിലേ സ്ഥിരതയെ നശിപ്പിക്കുന്നതിന്റെ കാരണം വിശദീകരിക്കുകയും അത് മനസ്സിലാക്കുവാനും ശ്രമിക്കുക ഒരു സ്മിത്ത് പ്രിഡിക്റ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുക ഈ പാഠത്തിന് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അതാണ് ഒരു ഇൻവർസ് റസ്പോൺസ് പ്രക്രിയയ്ക്കുള്ള സ്റ്റെപ്പ് റസ്പോൺസ് ഒടുവിൽ ഒരു ഇൻവർസ് റസ്പോൺസ് കോമ്പൻസേറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാമും പഠിച്ചു നന്ദി നമസ്കാരം